ഹൈഡ്രോജെല്ലുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത് ക്രോസ് ലിങ്കർ അല്ലെങ്കിൽ മോണോമറുകളുടെ ഗാഢത മാറ്റിക്കൊണ്ട് ഹൈഡ്രോജെല്ലുകളുടെ കാഠിന്യത്തെ ട്യൂൺ ചെയ്യാൻ കഴിയും കൂടാതെ വ്യത്യസ്ത തരം ഹൈഡ്രോജെല്ലുകൾ വ്യത്യസ്ത സാങ്കേതിക വിദ്യകളിലൂടെ എങ്ങനെ സൃഷ്ടിക്കാമെന്നതിന്റെ ഉദാഹരണങ്ങളും നൽകി കോശങ്ങളുടെയും ജെല്ലുകളുടെയും കാഠിന്യത്തെ വിശദീകരിക്കുന്നതിന് ഞാൻ എ എം അല്ലെങ്കിൽ ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി അവതരിപ്പിച്ചു ഹൈഡ്രോജെല്ലുകൾ കോശങ്ങൾ കലകൾ എന്നിവയുടെ ഗുണങ്ങൾ തെളിയിക്കാൻ എ എം എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിക്കുകയും ചെയ്തു കോശത്തിന്റെ ജ്യാമിതി അല്ലെങ്കിൽ അതിർത്തി അവസ്ഥകൾ കോശങ്ങളുടെ ഗുണങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ അളക്കുന്നതിനെ എങ്ങനെ സ്വാധീനിക്കും എന്നതിന്റെ ചില ഉദാഹരണങ്ങളും ഞാൻ നൽകി ഉദാഹരണത്തിന് ഒരു ജെൽ വളരെ നേർത്തതാണെങ്കിൽ കട്ടിയുള്ളതും കടുപ്പമുള്ളതുമായ സബ്സ്ട്രേറ്റിൽ കാണിക്കുന്ന അതേ പ്രതികരണങ്ങൾ മൃദുവായ നേർത്ത ജെല്ലുകളിലും കോശം കാണിക്കുന്നു എം ഉപയോഗിച്ച് കോശങ്ങളുടെ കോർട്ടിക്കൽ കാഠിന്യത്തെ എങ്ങനെ അളക്കാമെന്ന് ഞാൻ ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ കോശങ്ങളുടെ കൺട്രാക്റ്റിലിറ്റി കണക്കാക്കുന്നതിനെക്കുറിച്ചുള്ള ടെക്നിക്കുകൾ അവതരിപ്പിച്ചു മിക്ക അഡ്ഹറൻറ്റ് കോശതരങ്ങളിലും കോർട്ടിക്കൽ കാഠിന്യവും കൺട്രാക്റ്റിലിറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് കൺട്രാക്റ്റിലിറ്റി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കോർട്ടിക്കൽ കാഠിന്യമോ കോശങ്ങളുടെ കാഠിന്യമോ വർദ്ധിക്കും അതായത് ഒരു ലീനിയർ കോറിലേഷൻ ലഭിക്കും കൺട്രാക്റ്റിലിറ്റി നേരിട്ട് അളക്കുന്നതിനുള്ള മൂന്ന് സാങ്കേതിക വിദ്യകൾ ഞാൻ അവതരിപ്പിച്ചു ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി ട്രിപ്സിൻ ഡീഅഥീഷൻ ലേസർ അബ്ളേഷൻ സിംഗിൾ സ്ട്രെസ് ഫൈബറിലെ കൺട്രാക്റ്റിലിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലേസർ അബ്ളേഷൻ നൽകുന്നുണ്ടെങ്കിലും ട്രിപ്സിൻ ഡീഅഥീഷൻ ഒരു കോശത്തിന്റെ കൺട്രാക്റ്റിലിറ്റിയുടെ മുഴുവൻ അളവും നൽകുന്നു കൂടാതെ കോശങ്ങൾ ചെലുത്തുന്ന ശക്തികളുടെ അളവുകൾ ട്രാക്ഷൻ ഫോഴ്സ്സിൽ കൂടി കണ്ടുപിടിക്കാം അതിനാൽ ഈ രണ്ട് ടെക്നിക്കുകളിലും നിങ്ങൾ റിലാക്സേഷന്റെ സമയ സ്ഥിരത അളന്നു ഇത് സങ്കോചത്തിന്റെ പരോക്ഷമായ അളവാണ് നൽകുന്നത് അതേസമയം ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി നമുക്ക് പ്രത്യേക ഫോക്കൽ അവസ്ഥകളിൽ കോശങ്ങൾ പ്രയോഗിക്കുന്ന ശക്തികളുടെ അളവ് നൽകുന്നു കൺട്രാക്റ്റിലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൺട്രാക്റ്റിലിറ്റി നിർണ്ണയിക്കുന്നത് സൈറ്റോസ്കെലിറ്റൽ ഓർഗനൈസേഷനാണ് സൈറ്റോസ്കെലിറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മയോസിൻ മോട്ടോറുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പേശിഇതര കോശങ്ങളിൽ മയോസിൻറെ 3 വ്യത്യസ്ത ഐസോഫോമുകളായ മയോസിൻ II എ II ബി II സി myosin II A II B II C എന്നിവ കാണാം ഇവ പ്രത്യേകമായരീതിയിൽ പ്രാദേശികവൽക്കരിച്ചിരിക്കുന്നു ആക്റ്റിൻ ബൈൻഡിംഗ് പ്രോട്ടീനുകളാണ് സൈറ്റോസ്കെലിറ്റൽ ഓർഗനൈസേഷനെ നിർണ്ണയിക്കുന്നത് ഇവയിൽ ക്രോസ് ലിങ്കിംഗ് പ്രോട്ടീനുകളായ ഫിലമിൻ ആൽഫ ആക്ടിനിൻ ഫോർമിൻ തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇവയെല്ലാം സൈറ്റോസ്കെലിറ്റൽ ഓർഗനൈസേഷനെ മാറ്റിമറിക്കുന്ന ആന്തരിക നിയന്ത്രണങ്ങളോ ആന്തരിക തന്മാത്രകളോ ആണ് എന്നാൽ മൂലകോശങ്ങളുടെ ഡിഫറൻഷിയേഷന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കോശആകൃതിയും ഒരു പ്രധാന റെഗുലേറ്ററാണ് അതിനാൽ ഇന്ന് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം കോശആകൃതി നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് കോശങ്ങളെ കൾച്ചറിൽ പ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കപ്പോഴും കോശങ്ങൾക്ക് ഇതുപോലുള്ള ആകൃതികൾ ഉണ്ടാകും ഇത് ഒരു ഫൈബ്രോബ്ലാസ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ആകൃതിയായിരിക്കാം അല്ലെങ്കിൽ ഇത് മറ്റൊരു കോശമാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതിനാൽ കൾച്ചറിൽ ഇത്തരം ആകൃതികളെ നിയന്ത്രിക്കാൻ കഴിയില്ല ആകൃതി മാറിക്കൊണ്ടിരിക്കും കോശആകൃതി നിയന്ത്രിത രീതിയിൽ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു ഇക്കാര്യത്തിൽ ലിത്തോഗ്രാഫിയുടെ സാങ്കേതികതയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൈക്രോ ഫാബ്രിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോലിത്തോഗ്രാഫി ഒരു നേർത്ത ഫിലിമിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു സബ്സ്ട്രേറ്റിൻറെ ഭൂരിഭാഗവും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഫോട്ടോലിത്തോഗ്രാഫി ഈ സാങ്കേതിക വിദ്യയിൽ ഫോട്ടോ മാസ്കിൽ നിന്ന് ഒരു ജ്യാമിതീയ പാറ്റേൺ സബ്സ്ട്രേറ്റിലിരിക്കുന്ന ലൈറ്റ് സെൻസിറ്റീവ് കെമിക്കലിലേക്ക് മാറ്റാൻ പ്രകാശം ഉപയോഗിക്കുന്നു ഈ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള രാസവസ്തുവിനെ ഫോട്ടോറെസിസ്റ്റ് എന്ന് വിളിക്കുന്നു പലതരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്കളുണ്ട് ഈകെമിക്കൽ ട്രീറ്റ്മെൻറ്കൾ ഒന്നുകിൽ എക്സ്പോഷർ പാറ്റേൺ വയ്ക്കാനോ അല്ലെങ്കിൽ ഫോട്ടോറെസിസ്റ്റിന് കീഴിലുള്ള മെറ്റീരിയലിൽ ഒരു പുതിയ മെറ്റീരിയൽ ആവശ്യമുള്ള പാറ്റേണിൽ ഉണ്ടാക്കാനോ സഹായിക്കുന്നു നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും ഇതിനുള്ള നടപടിക്രമത്തിനായി വൃത്തിയുള്ള ഒരു മുറി ഉപയോഗിക്കുക എന്നിട്ട് ഒരു സബ്സ്ട്രേറ്റ് എടുക്കുക സിലിക്കൺ അല്ലെങ്കിൽ ഗ്ലാസ് ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റ് എടുക്കുക എന്നിട്ട് ഫോട്ടോറെസിസ്റ്റ് ഒരേപോലെ ഈ സബ്സ്ട്രേറ്റിൽ പൂശുക ഒരു യൂണിഫോം കോട്ടിംഗ് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് ഒരു സ്പിൻ കോട്ടർ ഉപയോഗിച്ച് ഈ യൂണിഫോം കോട്ടിംഗ് നടത്താം സ്പിൻ കോട്ടറിന്റെ ആശയം വളരെ ലളിതമാണ് സബ്സ്ട്രേറ്റ് കറങ്ങുന്ന ഒരു മോട്ടോറിൽ വയ്ക്കുക ഇത് സ്പിൻ കോട്ടറാണ് ഇതിൽ നിങ്ങൾ ഒരു തുള്ളി ഫോട്ടോറെസിസ്റ്റ് ഇടുന്നു ഒമേഗയെ ആശ്രയിച്ച് കൊണ്ടുള്ള ഒരു നിശ്ചിത ആർപിഎമ്മിൽ കറക്കുന്നു എത്ര വേഗത്തിൽ സ്പിൻ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് കോട്ടിംഗ് നടക്കും ഒമേഗ കൂടുമ്പോൾ വളരെ നേർത്ത പാളി അല്ലെങ്കിൽ ഒമേഗ കുറയുമ്പോൾ കൂടുതൽ കട്ടിയുള്ള പാളി ലഭിക്കും ഫോട്ടോറെസിസ്റ്റ് ചെയ്തുകഴിഞ്ഞാൽ സോഫ്റ്റ് ബേക്ക് എന്ന് വിളിക്കുന്ന മറ്റൊരു ഘട്ടം ചെയ്യുക തുടർന്ന് മാസ്ക് അലൈനർ ഉപയോഗിച്ചുകൊണ്ട് സബ്സ്ട്രേറ്റിനു മുകളിൽ ഇരിക്കുന്ന മെറ്റീരിയലിലേക്ക് ഫോട്ടോ മാസ്കിലൂടെ പ്രകാശം കൊടുക്കുക ഇത് സ്പിൻ കോട്ടുചെയ്ത സബ്സ്ട്രേറ്റ് ആണെങ്കിൽ മാസ്ക് അലൈനറും ഇവിടെ നിങ്ങളുടെ മാസ്കും ഉണ്ട് മാസ്കിന് പ്രകാശം കടന്നുപോകാൻ കഴിയുന്ന സെലക്ടീവ് സോണുകളും കൂടാതെ പ്രകാശത്തെ തടയുന്ന സെലക്ടീവ് സോണുകളും ഉണ്ട് ഇതിൻറെ പരിണതഫലമായി ഇത് ഫോട്ടോറെസിസ്റ്റ് ആണെങ്കിൽ ഈ മേഖലയിൽ പ്രകാശത്തിന് ഒരു എക്സ്പോഷർ ലഭിക്കുന്നു കൂടാതെ ഈ ഫ്രീ സോണുകൾക്ക് ലൈറ്റ് എക്സ്പോഷർ ലഭിക്കുന്നില്ല ഫോട്ടോമാസ്ക് ചെയ്തതിനുശേഷം അടുത്ത ഘട്ടം ചെയ്യുക ഇത് വീണ്ടും ഒരു ഡവലപ്പ്മെന്റ് സൊല്യൂഷനിൽ ഇടുക ഒടുവിൽ ഹാർഡ് ബേക്ക് ചെയ്യുന്നു ഇത് ഒരു ഓപ്ഷണൽ സ്റ്റെപ്പ് ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി ഇവിടെ രണ്ട് വ്യത്യസ്ത തരം ഫോട്ടോറെസിസ്റ്റുകൾ ഉപയോഗിക്കാം ഒന്ന് പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റും മറ്റൊന്ന് നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റുമാണ് ഇത് നിങ്ങളുടെ സബ്സ്ട്രേറ്റ് ആണെന്ന് സങ്കൽപ്പിക്കുക ഇത് ഫോട്ടോറെസിസ്റ്റാണ് ഈ മേഖലയാണ് ലൈറ്റ് എക്സ്പോഷറിന് വിധേയമാക്കുന്നത് ഇത് ഒരു പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റ് ആണെങ്കിൽ മെറ്റീരിയൽ വികസിപ്പിച്ചെടുക്കുമ്പോൾ ആത്യന്തികമായി നിങ്ങൾക്ക് സബ്സ്ട്രേറ്റിൽ ഇനിപ്പറയുന്നവ ലഭിക്കും പോസിറ്റീവ് ഫോട്ടോറെസിസ്റ്റിന് ഉദാഹരണമാണ് ഷിപ്ലി 1813 ലൈറ്റ് എക്സ്പോഷറിന് ശേഷം പോളിമർ അല്ലെങ്കിൽ ഫോട്ടോറെസിസ്റ്റ് കൂടുതൽ ലയിക്കുന്നു ഇതിനു വിപരീതമായി നെഗറ്റീവ് ഫോട്ടോറെസിസ്റ്റ് ഉണ്ട് ഉദാഹരണം എസ്യു 8 ആണ് ഇവിടെ ലൈറ്റ് എക്സ്പോഷറിന് ശേഷം പോളിമർ കുറച്ചു മാത്രം ലയിക്കുന്നു അതിനാൽ പോസിറ്റീവും നെഗറ്റീവും ഫോട്ടോറെസിസ്റ്റ് ലഭിക്കാൻ രണ്ട് വ്യത്യസ്ത തരം ഫോട്ടോമാസ്ക് ഉണ്ടായിരിക്കണം ഇത് എന്റെ സബ്സ്ട്രേറ്റ്ണെന്നും ഇത് ഒരേപോലെ പൂശിയിരിക്കുന്ന ഫോട്ടോറെസിസ്റ്റാണെന്നും ഞാൻ പറഞ്ഞിരുന്നു പ്രകാശമാണ് ഈ വരുന്നത് ഈ വസ്തുവിനെ ഫോട്ടോമാസ്ക് എന്ന് വിളിക്കുന്നു പ്രകാശം കടന്നുപോകാൻ അനുവദിക്കുന്ന ദ്വാരങ്ങളുള്ള അതാര്യമായ പ്ലേറ്റാണിത് മുമ്പത്തെ ഉദാഹരണത്തിലേക്ക് മടങ്ങി പോയാൽ ഇത് പോസിറ്റീവ് ഫോട്ടോമാസ്ക് ആണെങ്കിൽ ഉൽപ്പന്നത്തിൻറെ മധ്യത്തിലൂടെ പ്രകാശം കടന്നുപോകുന്നു നെഗറ്റീവ് ഫോട്ടോമാസ്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കേന്ദ്രീകൃത മേഖല മാത്രമേയുള്ളൂ ചുറ്റുപാടുകൾ വെളിച്ചം കടന്നുപോകാൻ അനുവദിക്കും ഇത് സബ്സ്ട്രേറ്റാണ് അതിനാൽ പ്രകാശം ഇവിടെ കൂടി കടന്നുപോകും പക്ഷേ പ്രകാശം മധ്യത്തിലൂടെ കടന്നുപോകില്ല ശരിക്കും ഈ സാഹചര്യത്തിൽ ഇത് ഈ രണ്ട് പോയിന്റുകളിൽ കുടുങ്ങുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത മെറ്റീരിയലിലുള്ള ഫോട്ടോമാസ്ക് എടുക്കാം ഉദാഹരണത്തിന് ക്രോം ഗ്ലാസ് ഇത് സുതാര്യമാണ് ഇത് ബ്രോഡ് ലിത്തോഗ്രാഫി ആണ് സോഫ്റ്റ് ലിത്തോഗ്രാഫി എന്താണ് ബയോളജി ആപ്ലിക്കേഷനുകൾക്കായി സോഫ്റ്റ് ലിത്തോഗ്രാഫി ആണ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ലിത്തോഗ്രാഫി ഘടനകളെ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യകളുടെ കുടുംബത്തെ സൂചിപ്പിക്കുന്നു ഇലാസ്റ്റോമറുകൾ ഉപയോഗിച്ച് ഘടനകൾ നിർമ്മിക്കാം ഈ സാങ്കേതികത വിലകുറഞ്ഞതാണ് ഇത് ബയോആപ്ലിക്കേഷനുകൾക്കും കൂടാതെ പ്ലാസ്റ്റിക് ഇലക്ട്രോണിക്സിലെ ആപ്ലിക്കേഷനുകൾക്കും അനുയോജ്യമാണ് 10 നാനോമീറ്റർ ഓർഡർ വരെയുള്ള റെസല്യൂഷനിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം സോഫ്റ്റ് ലിത്തോഗ്രാഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് പിഡിഎംഎസ് ആണ് ചില ഹൈഡ്രോജെല്ലുകൾ നിർമ്മിക്കുന്നതിനും പിഡിഎംഎസ് ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇവിടെ പിഡിഎംഎസ് മാസ്ക്കുകൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് പാറ്റേണുകൾ ഉണ്ടാക്കാനല്ല പിഡിഎംഎസ് ൻറെ പൂർണ്ണ രൂപമാണ് പോളി ഡൈമെഥൈൽ സിലോക്സെയ്ൻ ഇതുപയോഗിച്ച് കാഠിന്യത്തെ ട്യൂൺ ചെയ്യാൻ കഴിയും എന്നതാണ് ഒരു ഗുണം ഇത് വലിയ പ്രദേശങ്ങളിൽ ഉപരിതലങ്ങളുമായി പൊരുത്തപ്പെടുന്നു അതുകൊണ്ട് പിഡിഎംഎസിൽ നിന്ന് എന്തെങ്കിലും നിർമ്മിച്ച ശേഷം പ്ലാസ്മ ഓക്സിഡൈസേഷൻ ഉപയോഗിച്ച് പിഡിഎംഎസിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം ഓക്സിജൻ പ്ലാസ്മയിലേക്ക് ഇത് എക്സ്പോസ് ചെയ്യുന്നത് എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ പിഡിഎംഎസ് ഗ്ലാസിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ മറ്റ് പിഡിഎംഎസുകളിൽ പറ്റിനിൽക്കുകയോ ചെയ്യാം കോവാലന്റ് ബോണ്ടുകൾ ഉണ്ടാകുന്നതിനാൽ ഈ പ്രക്രിയ പഴയപടിയാക്കാനാകില്ല എന്നതാണ് പ്രശ്നം ഒരു പിഡിഎംഎസ് മെറ്റീരിയൽ നിർമ്മിക്കുന്നത് എങ്ങനെ ആണ് ലിത്തോഗ്രാഫി ഉപയോഗിച്ച ചെയ്ത അതേ കാര്യത്തിലാണ് നിങ്ങൾ ആരംഭിക്കുന്നത് ഫോട്ടോറെസിസ്റ്റിന്റെ ഒരു ടോപ്പോഗ്രാഫി സബ്സ്ട്രേറ്റിലേക്ക് കൈമാറ്റം ചെയ്തു ഇതൊരു ഫോട്ടോറിസ്റ്റ് ആണ് നിങ്ങൾ ആദ്യം പിഡിഎംഎസ് ഇതിൻറെ മുകളിലേക്ക് ഇടുക ഇത് തുടക്കത്തിൽ ഒട്ടലുള്ള ഒരു ദ്രാവകമാണ് പിഡിഎംഎസ് ഇട്ടതിന് ശേഷം അത് 60 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഒരു പ്ലേറ്റിലോ അടുപ്പിലോ വച്ച് തയ്യാറാക്കുക അപ്പോൾ ഈ മെറ്റീരിയൽ പോളിമറൈസ് ചെയ്യും ഇത് പോളിമറൈസ് ചെയ്തുകഴിഞ്ഞാൽ പിഡിഎംഎസ് അടർത്തിമാറ്റാം നിങ്ങൾക്ക് ഇതുപോലെയാണ് കിട്ടിയത് റഫർ സമയം 1911 ഇത് ചെയ്തുകഴിഞ്ഞാൽ തീർച്ചയായും ഈ ജ്യാമിതീയ സവിശേഷതകൾ മാറ്റാൻ കഴിയും എന്നിരുന്നാലും ഉദാഹരണത്തിന് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ സൃഷ്ടിക്കുകയാണെങ്കിൽ വളരെ ഉയരമുള്ളതായതുകൊണ്ട് ഇവ പരസ്പരം തകരാറിലായേക്കും ഇത് വൈകല്യങ്ങൾ ഉണ്ടാക്കാം ഇത് ഒരു വൈകല്യത്തിന് ഉദാഹരണമാണ് ഇതിനെ ജോടിയാക്കൽ എന്ന് വിളിക്കുന്നു സബ്സ്ട്രേറ്റിനു മുകളിൽ പിഡിഎംഎസ് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു പുതിയ സബ്സ്ട്രേറ്റിൽ തന്നിരിക്കുന്ന ലിഗാണ്ട് ഉപയോഗിച്ച് പൂശിയ ശേഷം പിഡിഎംഎസിനെ തലകീഴായി മറിക്കണം ഈ സാഹചര്യത്തിൽ പിഡിഎംഎസ് അയഞ്ഞുതൂങ്ങി തകരാറിലായേക്കാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജ്യാമിതി ഉണ്ടായിരിക്കാം ഇത് ഒരു സാഗിങ് പ്രശ്നമാണ് പിഡിഎംഎസിന്റെ പദാർത്ഥസംയോജനം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്കിത് വളരെ നന്നായി ഉപയോഗിക്കാം മൈക്രോ പില്ലേഴ്സ് ലഭിക്കുന്നതിനും ഇത് ഉപയോഗിക്കാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഇത് ദ്വിമാന രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ നിങ്ങൾക്ക് 2 ഡി പ്രതലത്തിൽ ഇത്തരത്തിലുള്ള പാറ്റേണുകൾ ലഭിക്കും ഇത് ശരിയാണെങ്കിൽ ഇതിനു മുകളിൽ കോശം പ്ലേറ്റ് ചെയ്യാനും കോശങ്ങൾ നൽകാനും കഴിയും നിങ്ങൾ ചില ഇസിഎം ലിഗാണ്ട് ഉപയോഗിച്ച് പൂശുകയാണെങ്കിൽ കോശം യഥാർത്ഥത്തിൽ വ്യാപിക്കുകയും തുടർന്ന് ബലം ചെലുത്താനും കഴിയും അതിനാൽ ഇവിടെ ഒരു കോശഒത്തുചേരൽ ഉണ്ടാകും കൂടാതെ അകത്തേക്ക് നയിക്കുന്ന അതായത് ആന്തരിക ദിശയിലുള്ള ഒരു ബലവും ചെലുത്തപ്പെടും ഞാൻ മുകൾ കാഴ്ചയിൽ നിന്നുകൊണ്ട് സെന്റർ പോയിന്റ് വരയ്ക്കുമ്പോൾ കോശങ്ങളില്ലാത്ത ഈ നാല് പില്ലർ ഗ്രിഡ് ഉണ്ട് അതിനാൽ ഈ പില്ലറുകളുടെ വ്യാസം ഡി എന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയും കൂടാതെ ഈ ഓരോ പില്ലറുകളുടെയും വ്യാസം ഫൈ എന്നറിയപ്പെടുന്നു കോശം പില്ലറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനം ട്രാക്കു ചെയ്യാനാകും അങ്ങനെ ഇത് യഥാർത്ഥ സ്ഥാനമാണോ എന്ന് നമുക്ക് പറയാം കൺട്രാക്റ്റൈൽ ഫോഴ്സ് പ്രയോഗിക്കുന്ന കോശം ആണെങ്കിൽ മുകൾഭാഗത്തിന് അകത്തേക്ക് സ്ഥാനഭ്രംശം സംഭവിക്കും തന്മൂലം പില്ലറുകൾക്കും സ്ഥാനഭ്രംശം സംഭവിക്കും പില്ലറിന്റെ സ്ഥാനചലനത്തെ Δx എന്നുപറയുന്നു ഓരോ പില്ലറിന്റെയും സ്ഥാനചലനം കണ്ടെത്താൻ കഴിയും പില്ലറിന്റെ സ്ഥാനചലനവും ഈ മെറ്റീരിയലിന്റെ കാഠിന്യവും അറിയാവുന്നതുകൊണ്ട് ഓരോ പില്ലറിലെയും ശക്തി കൃത്യമായി നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് കഴിയും കൂടാതെ പില്ലറുകളുടെ നീളം മാറ്റിക്കൊണ്ട് അവയുടെ കാഠിന്യം ട്യൂൺ ചെയ്യാൻ കഴിയും എന്നതാണ് ഈ സാങ്കേതികതയുടെ പ്രയോജനം അതിനാൽ പില്ലറിന്റെ നീളം എൽ ആണെങ്കിൽ അതിന്റെ കാഠിന്യം കെ ആണെന്ന് പറയട്ടെ നിങ്ങൾക്ക് രണ്ട് എൽ അതായത് എൽ ഉം എൽ ഡാഷും L and L ഉണ്ടെങ്കിൽ എൽ ഡാഷ് എൽ L ＞ L നെക്കാൾ വലുതാണെങ്കിൽ കെ ഡാഷ് കെ K ＜ K യേക്കാൾ കുറവായിരിക്കും എൽ ഡാഷ് എൽ L L നെക്കാൾ വലുതാണെങ്കിൽ പില്ലർ കൂടുതൽ ഉയരമുള്ളതാകുന്നു അതിനാൽ അത് കൂടുതൽ കംപ്ലയിന്റ് ആകും ഇത് രൂപമാറ്റം എളുപ്പമാക്കും മൈക്രോ പില്ലറുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു വലിയ നേട്ടമാണിത് കാരണം ഇൻവെഴ്സ് പ്രോബ്ലം പരിഹരിക്കുന്നതിന് ലീനിയർ ഇലാസ്റ്റിറ്റി സിദ്ധാന്തം ആവശ്യമില്ല ഒരിക്കൽ സ്ഥാനചലനം അറിഞ്ഞുകഴിഞ്ഞാൽ കോശങ്ങൾ ചെലുത്തുന്ന ശക്തികളെ കൃത്യമായി കണ്ടെത്താൻ കഴിയും മൈക്രോ ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച ഒരു ഉദാഹരണമാണിത് കോശആകൃതി നിയന്ത്രിക്കുന്നതിനുള്ള മറ്റൊരു ഉദാഹരണം മൈക്രോ കോൺടാക്റ്റ് പ്രിന്റിംഗ് ആണ് മൈക്രോ കോൺടാക്റ്റ് പ്രിന്റിംഗിൽ നിങ്ങൾ ചെയ്യുന്നത് പി ഡി എം എസ് മോൾഡ് നിങ്ങൾക്കിഷ്ടമുള്ള ചില ഇസിഎം പ്രോട്ടീൻ ഉപയോഗിച്ച് ഇൻകുബേറ്റ് ചെയ്യുക ശേഷം കുറച്ച് സമയത്തേക്ക് യോജിക്കാൻ അനുവദിക്കുക തുടർന്ന് ഒരു സബ്സ്ട്രേറ്റ് എടുക്കുക ഇത് പിഡിഎംഎസിനെ തലകീഴാക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണെന്ന് പറയട്ടെ ഇത് ചെയ്തതിന് ശേഷം വായുവിൽ ഉണങ്ങാൻ അനുവദിക്കുക ഈ പോയിന്റുകളെ മാത്രം ഉണങ്ങാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ പോയിന്റുകളെല്ലാം ഇസിഎം പ്രോട്ടീനുമായി പൊതിഞ്ഞതായിരിക്കും എന്നാൽ ഇത് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ഈ എക്സ് പ്രൊട്രുഷൻസിൽ മാത്രം ഇസിഎം പ്രോട്ടീൻ കാണും അതിനാൽ ഈ പോയിന്റിൽ ഇസിഎം പ്രോട്ടീൻ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇത് ചെയ്തുകഴിഞ്ഞതിനു ശേഷം അവശേഷിക്കുന്ന സോണുകളെ ബിഎസ്എ അല്ലെങ്കിൽ പ്ലൂറോണിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോൺ അഡ്ഹറന്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് മറയ്ക്കാം നിങ്ങൾ അതിനെ മുകളിൽ കൂടി നോക്കുകയാണെങ്കിൽ ഇനിപ്പറയുന്നവ കാണാം സർക്കിളുകളും ശേഷിക്കുന്ന സോണുകളുമാണ് ജ്യാമിതി അതിനാൽ ചുവപ്പ് നോൺ അഡ്ഹറന്റും പച്ച അഡ്ഹറന്റുമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് കോശആകൃതി നിയന്ത്രിക്കാൻ കഴിയുക പ്ലൂറോണിക് അല്ലെങ്കിൽ പെഗിന്റെ കോട്ടിംഗ് ഒരേ പോലെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇത് ഒരേ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്രോ കൺട്രാക്റ്റബിലിറ്റി പ്രവർത്തിക്കില്ല ഇസിഎം പ്രോട്ടീനുകൾ പൂശുന്നതിനുപകരം അതിൽ മൈക്രോ പ്രിന്റ് ഡിഎൻഎ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹവും നൽകാം അതിനാൽ ഒരു പ്രത്യേകതരം മെറ്റീരിയലിൽ മാത്രം ഇത് പരിമിതപ്പെടുന്നില്ല ഞാൻ അവസാനമായി ഒരു പഠനം ചർച്ച ചെയ്തിരുന്നു അതിൽ കാണിച്ച പഠനങ്ങളിൽ ആദ്യത്തേത് സെൽ ഫേഡിങ്ങും അപ്പോപ്ടോസിസും തമ്മിലുള്ള ബന്ധമാണ് അതിനാൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഐലൻഡുകളെ വ്യത്യസ്ത വലുപ്പത്തിലുള്ളതാക്കുക എന്നതായിരുന്നു കോശങ്ങളെ പ്ലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഉപരിതലവിസ്തീർണം വർദ്ധിച്ചുകൊണ്ടിരുന്നു കൂടാതെ അപ്പോപ്ടോസിസിന്റെ ശതമാനം എന്താണെന്ന് നിങ്ങൾ ട്രാക്കുചെയ്യുക എക്സ് ആക്സിസ് സ്പ്രെഡ് ഏരിയയാണ് അതായത് ഏരിയ എ ആണ് വ്യാപന പ്രദേശം കുറവായിരിക്കുമ്പോൾ അപ്പോപ്ടോസിസ് വളരെ ഉയർന്നതാണെന്ന് കണ്ടെത്തി പക്ഷേ വ്യാപനപ്രദേശം വർദ്ധിക്കുമ്പോൾ പെട്ടെന്നുതന്നെ അപ്പോപ്ടോസിസ് കുറയുന്നു അതിനാൽ ഒരു കോശത്തിന് നിലനിൽക്കാൻ ഒരു ഒപ്റ്റിമൽ വലുപ്പം ആവശ്യമാണെന്ന് ഇത് തെളിയിക്കുന്നു കൂടാതെ പ്രോലിഫറേഷൻ പെർസെന്റജ് പ്ലോട്ട്ചെയ്യുകയാണെങ്കിൽ അപ്പോപ്ടോസിസ് കുറയുന്നതിനനുസരിച്ച് പ്രോലിഫറേഷൻ നിരക്കിൽ വർദ്ധനവ് ഉണ്ടാകുന്നു നിഷ്ക്രിയ വലുപ്പവും ഐലൻഡുകളും അപ്പോപ്ടോസിസും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ആദ്യ പഠനമാണിത് സ്പ്രെഡിംഗ് ഏരിയ വർദ്ധിക്കുന്നത് ഫോക്കൽ അഡീഷണൽ ഏരിയയുടെ വർദ്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൃത്താകൃതിയിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങൾ അവർ സൃഷ്ടിച്ചു മറ്റൊരു സാഹചര്യത്തിൽ ഒരേ സ്ഥലം തന്നെ ഒന്നിലധികം പോയിന്റുകളിൽ തുല്യ അകലത്തിൽ എടുത്തു അതിനാൽ ആ പ്രദേശത്തിന്റെ മൊത്തത്തുക എക്ക് തുല്യമാണ് ഈ സാഹചര്യത്തിൽ മൊത്തത്തിലുള്ള സെൽ സ്പ്രെഡ് ഏരിയയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു കോശം ഇതുപോലെ വ്യാപിക്കുന്നുവെങ്കിൽ കോശവ്യാപന പ്രദേശം ഈ പ്രദേശത്തേക്കാൾ വളരെ വലുതാകും കൂടാതെ കോശവ്യാപന പ്രദേശമാണ് കോശത്തിന്റെ അതിജീവനത്തെയും വർദ്ധനവിനെയും നിയന്ത്രിക്കുന്നതെന്ന് കാണാം ഞാൻ ഇവിടെ എന്റെ പ്രഭാഷണങ്ങൾ നിർത്തുന്നു ട്രാക്ഷൻ ഫോഴ്സ് മൈക്രോസ്കോപ്പി പഠനത്തിനായി മൈക്രോ പില്ലറുകൾ പോലുള്ള ഘടനകൾ സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള ഐലൻഡുകൾ സൃഷ്ടിക്കാൻ മൈക്രോ കോൺടാക്റ്റ് പ്രിന്റിംഗ് ഉപയോഗിക്കുന്നതിന് സോഫ്റ്റ് ലിത്തോഗ്രാഫി അല്ലെങ്കിൽ മൈക്രോ ഫാബ്രിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ ചർച്ചചെയ്തു കൂടാതെ വ്യാപനം പോലുള്ള കോശ സ്വഭാവങ്ങൾ കോശത്തിന്റെ നിലനിൽപ്പിനും വർദ്ധനവിനും വൈവിധ്യതതയ്ക്കും ആവശ്യമാണെന്നും പഠിച്ചു